പത്താം അധ്യായത്തിലേക്ക് സ്വാഗതം സൈമുൽട്ടാനിയസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ആണ് നാം കണ്ടത് എ ഡി കൺവെർട്ടറിനെപ്പറ്റി പഠിക്കുന്നതിനു മുമ്പ് ചില സാംപ്ലിങ് ആശയങ്ങൾ മനസ്സിലാക്കാം എ ഡി കൺവെർട്ടറിൽനിന്നും ലഭിക്കുന്ന സാംപ്ലിങ് വാല്യൂ ഒരു പ്രത്യേക സാംപ്ലിങ് ഇൻസ്റ്റന്റിലേതാണ് സിഗ്നൽ ലഭ്യമായിട്ടുള്ളത് സാംപ്ലിങ് ഇൻസ്റ്റന്റിൽ മാത്രമാണ് ഈ അനലോഗ് സിഗ്നലിൽ ഇവിടെയും ഇവിടെയും ആണ് സാംപ്ലിങ് ലഭിക്കുന്നത് പക്ഷേ ഇവിടെയെല്ലാം ഉള്ള സിഗ്നലിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയില്ല നമ്മൾ അതിനാൽ അനുമാനിക്കുകയാണ് ചെയ്യുക ഇവിടെ ഹോൾഡ് സ്ട്രാറ്റജി എന്നു പറയുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ് അല്ല കാരണം സാമ്പിൾ ആൻഡ് ഹോൾഡിൽ സിഗ്നൽ ഹോൾഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് ഈ സിഗ്നൽ ഒരു ഗ്രാഫിൽ അടയാളപ്പെടുത്തണമെന്ന് വെക്കുക ഈ സിഗ്നൽ ഈ പോയിൻറ് വരെ നിലനിർത്തി പിന്നീട് ഈ പോയിൻറ് വരെ നിലനിർത്തി പിന്നെ താഴോട്ടു വരുന്നു നിങ്ങൾ ഇത് ഇങ്ങനെ ആയിരിക്കുമോ വരയ്ക്കുക ഇത് വരയ്ക്കുന്ന മറ്റൊരു രീതി നോക്കാം ആദ്യം ഇവയ്ക്ക് രണ്ടിനും ഇടയ്ക്ക് ഒരു വര വരച്ച് ഇങ്ങോട്ട് ഒരു നേർരേഖ വരയ്ക്കാം ഒരു ലീനിയർ ഇന്റർപൊളേഷൻ ആണെന്ന് പറയാം അതൊരു കണ്ടിന്യൂസ് സിഗ്നൽ ആയി വരണമെങ്കിൽ അതിനനുസരിച്ച ഇന്റർപൊളേഷൻ തെരഞ്ഞെടുക്കാം ഇത് പഴയ സിഗ്നലിന്റെ ഏകദേശരൂപം ആയിരിക്കും അടുത്ത ചോദ്യം അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നലുമായി എത്രമാത്രം സദൃശ്യമാണ് എന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഇത് രണ്ടു കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഒന്നാമത്തേത് എത്രമാത്രം അടുത്താണ് സാമ്പിൾസ് എന്നുള്ളതാണ് സിഗ്നൽ ഇത് പോലെ അടുത്തുള്ള ഇടവേളകളിൽ ഭാഗിപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ലഭിക്കുമായിരുന്നു ഇവയെ രേഖകൾ കൊണ്ട് യോജിപ്പിച്ചാൽ ഇതുപോലെ അനലോഗ് സിഗ്നലിനോട് കൂടുതൽ സദൃശ്യമായ സിഗ്നൽ ലഭിക്കും അതിനാൽ പൊതുവേ കൂടുതൽ അടുത്തുള്ള സാംപ്ലിങ് കൂടുതൽ മികച്ച കൃത്യത അല്ലെങ്കിൽ അക്യുറസി നൽകുന്നു പക്ഷേ ഇവിടെ കൂടുതൽ അധ്വാനം ആവശ്യമുണ്ട് കൂടുതൽ വേഗത്തിലുള്ള സാംപ്ലിങ് ഡേറ്റ പ്രോസസിംഗ് തുടങ്ങിയവ ആവശ്യമുണ്ട് അതിനാൽ നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നും താങ്ങാനാവുന്ന എററിന്റെ ലെവൽ എത്രയാണെന്നും തീരുമാനിക്കേണ്ടതുണ്ട് ഇവിടെ ചില അടിസ്ഥാന തത്വങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സാമ്പിൾ ചെയ്യാനും എറർ കുറവായി വയ്ക്കാനും ആണ് നാം ശ്രമിക്കുക പൊതുവേ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ എറർ കുറയ്ക്കാൻ നാം ശ്രമിക്കുന്നു കാരണം സിഗ്നലിന്റെ കുറഞ്ഞ ഫ്രീക്വൻസി ഘടകങ്ങൾ ആണ് കൂടുതൽ ഉപയോഗപ്രദം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്നാൽ ഒരു അനലോഗ് ഇൻപുട്ട് ഉണ്ടെന്ന് കരുതുക ഒരു സൈക്കിളിൽ 4 സാമ്പിൾസ് മറ്റൊരു സൈക്കിളിൽ 8 സാമ്പിൾസ് മറ്റൊരു സൈക്കിളിൽ 16 സാമ്പിൾസ് ഉണ്ടെന്നു കരുതുക ക്രമേണ അനലോഗ് ഇൻപുട്ടിന്റെ രൂപം വ്യക്തമായി വരുന്നു വളരെ പ്രധാനപ്പെട്ട തിയറം ആണ് നൈക്വിസ്റ്റ് റേറ്റ് ഓഫ് സാംപ്ലിങ് ഈ ആശയമാണ് ചിത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ അനലോഗ് സൈൻ വേവിനെ നിങ്ങൾ സാംപ്ലിങ് ചെയ്യുന്നു എന്ന് കരുതുക നൈക്വിസ്റ്റ് സാംപ്ലിങ് തിയറം എന്താണെന്നറിയാതെ ഈ പോയന്റ്സിൽ സാമ്പിൾ ചെയ്തു എന്ന് കരുതുക ഈ സിഗ്നൽ കമ്പ്യൂട്ടറിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഈ സിഗ്നൽ ആണ് ലഭിക്കുന്നത് റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട സിഗ്നൽ യഥാർത്ഥ സൈൻ വേവ് സിഗ്നലിനെക്കാളും വളരെ കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളതാണ് യഥാർത്ഥത്തിലുള്ള കൂടിയ ഫ്രീക്വൻസി പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ തെറ്റാണ് ഇവിടെ പറ്റിയിരിക്കുന്നത് ഒരു സിഗ്നൽ റീകൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ സിഗ്നലിലെ ഏറ്റവും വലിയ ഘടകത്തിന്റെ രണ്ടിരട്ടി നിരക്കിൽ സാമ്പിൾ ചെയ്യേണ്ടിവരും 5 ഹെർട്ട്സ് ഉള്ള ഒരു സിഗ്നലും 100 ഹെർട്ട്സ് ഉള്ള മറ്റൊരു സിഗ്നലും ഉണ്ടെന്നു കരുതുക സിദ്ധാന്തപരമായി പറഞ്ഞാൽ ഈ സിഗ്നൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ എണ്ണമറ്റ സാമ്പിൾസ് ഉണ്ടെങ്കിലും 200 ഹെർട്ട്സിൽ സാമ്പിൾ ചെയ്യേണ്ടിവരും പക്ഷേ നമുക്ക് പ്രാവർത്തികമായി റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ പ്രാവർത്തികമായ റേറ്റ് സിഗ്നലിലെ ഏറ്റവും വലിയ ഘടകത്തിന്റെ 5 മുതൽ 10 മടങ്ങു വരെയാണ് 5 ഹെർട്ട്സ് ഉള്ള ഒരു സിഗ്നൽ 1 കിലോഹെർട്ട്സിൽ അല്ലെങ്കിൽ 500 ഹെർട്ട്സിൽ എങ്കിലും സാമ്പിൾ ചെയ്യേണ്ടിവരും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അലിയാസിങ് ഉണ്ടാകും സാമ്പിൾസിൽ ഒരു ഫ്രീക്വൻസി സിഗ്നൽ ചെറിയ സിഗ്നൽ ആയി കാണപ്പെടുന്നു കുറഞ്ഞ ഫ്രീക്വൻസി സിഗ്നൽ കാണപ്പെടുന്നത് പൊതുവേ നല്ലതല്ല ഒരു ഫ്രീക്വൻസി മറ്റൊരു ഫ്രീക്വൻസിയിൽ കാണപ്പെടുന്നതാണ് അലിയാസിങ് സാംപ്ലിങ് റേറ്റ് ഉറപ്പിച്ചിരിക്കുന്നതിനാൽ ഇത് മാറ്റുക സാധ്യമല്ല അനലോഗ് സിഗ്നലിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീക്വൻസി ഘടകങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അതിനാൽ കുറഞ്ഞ ഫ്രീക്വൻസി ഘടകങ്ങൾ വരാതിരിക്കാൻ ഫിൽട്ടർസ് ഉപയോഗിക്കുക ഉദാഹരണത്തിന് സാംപ്ലിങ് ഫ്രീക്വൻസിയുടെ 110 കട്ട് ഓഫ് ഫ്രീക്വൻസി ആയി വച്ച് അതിൽ കൂടിയ ഘടകങ്ങളെല്ലാം ഒഴിവാക്കുക സാംപ്ലിങ് ഫ്രീക്വൻസി ഉറപ്പിച്ചതാണ് ആന്റി അലിയാസിങ് ഫിൽട്ടർ സാംപ്ലിങ് ഫ്രീക്വൻസിയുടെ 110 ഫ്രീക്വൻസിയിൽ കുറവുള്ള സിഗ്നൽ മാത്രം എ ഡി കൺവെർട്ടറിന്റെ ഇൻപുട്ടിൽ എത്തിക്കുന്നു ബാക്കിയുള്ളവയെല്ലാം തടയപ്പെടുന്നു അതിനാൽ അവയ്ക്ക് ലോ ഫ്രീക്വൻസി എറർ ഉണ്ടാക്കാൻ സാധിക്കില്ല ആന്റി അലിയാസിങ് ഫിൽട്ടർ fs2 സിഗ്നൽ ഫ്രീക്വൻസിസ് നീക്കം ചെയ്യുന്ന ഒരു അനലോഗ് ഫിൽറ്റർ ആണ് fs2 ഒരു തിയററ്റിക്കൽ റേറ്റ് ആണ് പ്രായോഗികമായി ഇത് fs2 നു മുകളിൽ ഫ്രീക്വൻസിസ് നീക്കം ചെയ്യില്ല പ്രായോഗികമായി ഇതിന് fs5 അല്ലെങ്കിൽ fs10 നീക്കം ചെയ്യാൻ സാധിക്കും ഇതൊരു ലോ പാസ് ഫിൽട്ടർ ആണ് ഈ ഫിൽട്ടർ സിഗ്നൽ കണ്ടീഷനറിന്റെയും എ ഡി സി യുടെയും ഇടയിലാണ് കാണപ്പെടുന്നത് മൾട്ടി ചാനലിന്റെ കാര്യത്തിൽ ഒന്നുകിൽ ചാനലിൽ സ്ഥാപിക്കാം അല്ലെങ്കിൽ മൾട്ടിപ്ലക്സറിനു ശേഷം സ്ഥാപിക്കാം ഇതൊരു ലളിതമായ സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടാണ് ഇതൊരു യൂണിറ്റി ഗെയിൻ ബഫർ ആണ് ഇതൊരു മോസ് സ്വിച്ച് ആണ് ഈ സ്വിച്ച് ഓൺ ആകുമ്പോൾ ഈ രണ്ടു പോയൻസ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു യൂണിറ്റി ഗെയിൻ ബഫർ ആണ് അതിനാൽ ഇവിടെ നൽകുന്ന വോൾട്ടേജ് ഇവിടെയും ലഭ്യമാകുന്നു ഇത് ഈ കപ്പാസിറ്റൻസിനെ വളരെ പെട്ടെന്ന് ചാർജ് ചെയ്യുന്നു ഈ സ്വിച്ച് റെസിസ്റ്റൻസ് കുറവായതിനാൽ ഇത് പെട്ടെന്ന് ചാർജ് ആകുന്നു ഈ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജ് ഈ വോൾട്ടേജിനെ പിന്തുടരുന്നു ഇതാണ് സാംപ്ലിങ് ഫേസ് സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഈ വോൾട്ടേജിനെ ട്രാക്ക് ചെയ്യുന്നു ഇനി ഈ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജ് ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒരു ഹൈ ഇംപിഡൻസ് കാണുന്നു അതിനാൽ കപ്പാസിറ്ററിലെ ചാർജിന് സ്വതന്ത്രമാകാൻ സാധിക്കില്ല കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഹോൾഡ് ചെയ്യപ്പെടുന്നു ഇതു മറ്റൊരു ബഫർ ആണ് ഈ ഔട്ട്പുട്ട് ഈ വോൾട്ടേജിൽ ഹോൾഡ് ചെയ്യപ്പെടുന്നു അതായത് ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സാമ്പിൾ നിർദ്ദേശമാണ് നൽകുന്നത് കപ്പാസിറ്റർ വോൾട്ടേജ് ഈ വോൾട്ടേജിനെ ട്രാക്ക് ചെയ്യുന്നു അടുത്തതായി സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യപ്പെട്ട വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് കൈമാറുന്നു ഇതാണ് സ്വാഭാവികമായ ഒരു സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട് ഒരുപാട് ഇൻപുട്ട് അനലോഗ് ചാനൽസ് ഉള്ളതിൽ ഇവ സിംഗിൾ എൻഡഡ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആകാം ഇനി ഒരു എ ഡി കൺവെർട്ടറിന് 100000 സാമ്പിൾസ് പെർ സെക്കൻഡ് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് കരുതുക നിങ്ങൾക്ക് എട്ടു ചാനൽസ് ഉണ്ടെങ്കിൽ ഒരോ ചാനലിനും ഏറ്റവും കൂടുതൽ 1000008 സാമ്പിൾസ് കൺവെർട്ട് ചെയ്യാൻ സാധിക്കും അതാണ് ത്രൂപുട്ട് പൊതുവേ എ ഡി കൺവെർട്ടറിന്റെ മാക്സിമം സാംപ്ലിങ് റേറ്റ് സ്പെസിഫിക്കേഷൻസ് ചാനലിന്റെ എണ്ണം എന്നിവ നൽകിയിട്ടുണ്ടാകും ഓരോ ചാനലിന്റെയും മാക്സിമം സാംപ്ലിങ് ഫ്രീക്വൻസി അനുമാനിക്കാൻ നമുക്ക് സാധിക്കണം അതിനാൽ ഇതാണ് ചാനലിന്റെ പ്രയോജനപ്രദമായ സാംപ്ലിങ് ഫ്രീക്വൻസി അതിനാൽ ആണ് ത്രൂപുട്ട് ആവശ്യമുള്ളത് അടുത്തതായി ക്വാൺടൈസേഷനിലേക്ക് വരാം ഒരു അനലോഗ് സിഗ്നൽ സാമ്പിൾ ആൻഡ് ഹോൾഡിനു ശേഷം എ ഡി കൺവെർട്ടറിന്റെ ഇൻപുട്ട് പിന്നിൽ എത്തുന്നു എന്ന് നാം കണ്ടു അതിനുശേഷം ഇത് ഒരു എൻ ബിറ്റ് ഡിജിറ്റൽ നമ്പർ ആയി മാറുന്നു ഉദാഹരണത്തിന് ഒരു 3 ബിറ്റ് എ ഡി സിയിൽ 8 നമ്പർസ് കാണിക്കാൻ സാധിക്കും 2 റ്റു ദ പവർ 3 8 ആണല്ലോ ഈ നമ്പർസ് 01234 തുടങ്ങി 23 1 അതായത് 7 വരെയാണ് നമ്പർ 0 0 വോൾട്ടിനോട് യോജിക്കുന്നു നമ്പർ 1 0 125 വോൾട്ടിനോട് യോജിക്കുന്നു ഓരോ എ ഡി സി ക്കും ഒരു അനലോഗ് റഫറൻസ് വോൾട്ടേജ് ഉണ്ട് ഇതാണ് ഡൈനാമിക് റേഞ്ച് തീരുമാനിക്കുന്നത് പൊതുവേ ഡൈനാമിക് റേഞ്ച് 10 വോൾട്ട്സ് ആണ് ഇവിടെ 1 വോൾട്ട് ആണെന്ന് കരുതുക 231 അതായത് 23 ഡിജിറ്റൽ 1 വോൾട്ടിനു തുല്യമാണ് 1 ഡിജിറ്റൽ അല്ലെങ്കിൽ നമ്പർ 001 കാണിക്കുന്നത് 18 വോൾട്ട്സ് ആണ് ഈ സിഗ്നൽ 0 വോൾട്ടിൽ നിന്ന് 0 125 വോൾട്ട്സ് അല്ലെങ്കിൽ 18 വോൾട്ട്സ് ആകുമ്പോൾ ഈ സിഗ്നൽ 000 ഇൽ നിന്ന് 001 ഇൽ എത്തുന്നു യഥാർത്ഥത്തിൽ 0 0 125 എന്നിവയ്ക്ക് ഇടയിലുള്ള ഏതു സിഗ്നലും 0 യിലേക്ക് ക്വാൺടൈസ് ചെയ്യപ്പെടുന്നു ഇതിനെയാണ് ക്വാൺടൈസേഷൻ എന്ന് വിളിക്കുന്നത് 25 എന്നിവയ്ക്ക് ഇടയിലുള്ള ഏതു സിഗ്നലും 001 ലേക്ക് ക്വാൺടൈസ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ തുടരുന്നു അവസാനമായി 0 875 മുതൽ 1 വോൾട്ട്സ് വരെയുള്ള ഏതു സിഗ്നലും 111 ലേക്ക് മാപ് ചെയ്യപ്പെടുന്നു ബിറ്റ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ക്വാൺടൈസേഷൻ ഇൻറർവൽ കുറയുന്നു റസല്യൂഷൻ മികച്ചതാവുകയും ചെയ്യുന്നു നമുക്ക് തീർച്ചയായും ഒരു 32 ബിറ്റ്സ് 64 ബിറ്റ്സ് തുടങ്ങിയ എ ഡി കൺവെർട്ടർസ് നിർമ്മിക്കാൻ സാധിക്കും നമ്പർ ഓഫ് ബിറ്റ്സ് മാത്രമല്ല മാപ്പിങ് ചെയ്യുമ്പോൾ ഇത് വളരെ കൃത്യമായിരിക്കണം ഉദാഹരണത്തിന് ഒരു 16 ബിറ്റ് എ ഡി കൺവെർട്ടർ ഉണ്ടെന്നു കരുതുക ഇതിൻറെ റസല്യൂഷൻ 165000 ആണ് സർക്യൂട്ടിന് 165000 വേർതിരിക്കാൻ ആകണം ഇത് മൈക്രോ വോൾട്ടിൽ ആയിരിക്കും അതിനാൽ സർക്യൂട്ട് വളരെ കൃത്യവും ചുറ്റുപാടും നോയ്സ് വളരെ കുറവും ആയിരിക്കണം അതല്ലെങ്കിൽ നോയ്സ് കാരണം എ ഡി കൺവെർട്ടറിലെ ഡിജിറ്റൽ ബിറ്റ്സ് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും അതിനാൽ ബിറ്റ്സിന്റെ എണ്ണം 18 ൽ കൂടുതലുള്ള എ ഡി കൺവെർട്ടർ നിർമ്മിക്കുക വളരെ ബുദ്ധിമുട്ടാണ് പൊതുവേ 12 14 അല്ലെങ്കിൽ 16 ബിറ്റ്സ് കൺവെർട്ടർസ് ആണ് ഉപയോഗിക്കാറ് അടുത്തത് എ ഡി കൺവെർട്ടറിന്റെ റസല്യൂഷൻ ആൻഡ് റേഞ്ച് ആണ് റെയിഞ്ച് സിഗ്നലിന്റെ കൃത്യതയെ ബാധിക്കുന്നു നമ്പറിനെ കൺവെർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരു 3 ബിറ്റ് എ ഡി കൺവെർട്ടറിൽ 001 23 അതായത് 18 ഇന്റു റഫറൻസ് വോൾട്ടേജ് ഇവിടെ റഫറൻസ് വോൾട്ടേജ് 1 ആണ് അതിനാൽ 0 125 വോൾട്ട്സ് ലഭിക്കുന്നു അതുകൂടാതെ ബിറ്റ്സിന്റെ എണ്ണം കൂടുമ്പോൾ റസല്യൂഷൻ വർദ്ധിയ്ക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നേരെമറിച്ച് ഒരു 10 വോൾട്ട്സ് റേഞ്ചും 1 വോൾട്ട് സിഗ്നലും ഉണ്ടെന്നു കരുതുക ഈ 1 വോൾട്ട് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ഒരു 3 ബിറ്റ് എ ഡി കൺവെർട്ടറിന്റെ ഡൈനാമിക് റേഞ്ച് 10 വോൾട്ട്സ് ആണെന്ന് കരുതുക യൂണിപോളാർ സിഗ്നൽസിനെ കുറിച്ച് സംസാരിക്കാം നെഗറ്റീവ് നമ്പേഴ്സ് ഒഴിവാക്കാം സിഗ്നൽ 0 മുതൽ 1 വരെ ഉള്ളതാണെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കില്ല നേരെമറിച്ച് 1 വോൾട്ട് 10 വോൾട്ട് ആയി ആംപ്ലിഫൈ ചെയ്താൽ 1 വോൾട്ട് സിഗ്നലിലെ മാറ്റം 3 ബിറ്റ്സ് റെസല്യൂഷനിൽ കാണാൻ സാധിക്കും ഇത് കാണിക്കുന്നത് എപ്പോഴും ആംപ്ലിഫിക്കേഷൻ വേണം എന്നാണ് അതിനാലാണ് ചിലർ പ്രോഗ്രാമബിൾ ഗെയിൻ ആംപ്ലിഫയർസ് ഉപയോഗിക്കുന്നത് ഈ ആംപ്ലിഫയർസിന്റെ ഗെയിൻ സോഫ്റ്റ്വെയർ കണ്ട്രോളിൽ മാറ്റാൻ സാധിക്കും ഇവ വളരെ ചെലവേറിയതാണ് എന്ന് മാത്രം സിഗ്നൽ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഡൈനാമിക് റേഞ്ച് അതായത് റഫറൻസ് വോൾട്ടേജ് വരെയുള്ള വോൾട്ടേജ് ഇൻപുട്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നു അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ബിറ്റ്സിൽ മികച്ച റസല്യൂഷൻ ലഭിക്കുന്നു ഡേറ്റ അക്വിസിഷനിൽ ഇത് ഓർക്കുന്നത് വളരെ പ്രധാനമാണ് ഇനി എ ഡി കൺവെർട്ടർ ആണ് പഠിക്കാനുള്ളത് അതിനുമുമ്പ് ഡി എ കൺവെർട്ടർ എന്താണെന്നു നോക്കാം കാരണം വളരെ സുലഭമായ സക്സസീവ് അപ്രോക്സിമേഷൻ കൺവെർട്ടറിൽ ഡി എ കൺവെർട്ടർ ആണ് ഉപയോഗിക്കുന്നത് ഒരു കൂട്ടം ഡിജിറ്റൽ ബിറ്റ്സിൽ നിന്ന് ആ നമ്പറിന് ആനുപാതികമായ അനലോഗ് വോൾട്ടേജ് എങ്ങനെ ലഭിക്കുന്നു എന്ന് നോക്കാം ഇതിനെ ആർ ടു ആർ ലാഡർ നെറ്റ്വർക്ക് എന്നാണ് വിളിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ആർ ടുആർ എന്നിങ്ങനെയുള്ള റെസിസ്റ്റൻസസ് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഡബിൾ റേഷ്യോ ഉണ്ട് ഈ ഘടന കാരണമാണ് ഇതിനെ ആർ ടു ആർ ലാഡർ നെറ്റ്വർക്ക് എന്നു വിളിക്കുന്നത് ഈ ബിറ്റ്സ് നിയന്ത്രിക്കുന്ന സ്വിച്ചസ് ആണ് ഇവ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം നോക്കാം ഈ MSB സ്വിച്ച് ചെയ്താൽ ഇതു മാത്രം ഇവിടെ ബന്ധിപ്പിക്കപ്പെടും മറ്റുള്ളവയെല്ലാം ഗ്രൌണ്ടിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ കാണുന്ന വോൾട്ടേജ് എന്തായിരിക്കും അത് വളരെ എളുപ്പമാണ് ടുആർ ടുആർ എന്നിവ ഇവിടെ പാരലൽ ആണ് ഇവിടെ ഇത് ഗ്രൌണ്ടും ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഈ റെസിസ്റ്റൻസ് ആർ ആയിരിക്കും ഇനി ഇപ്പോൾ ലഭിച്ച ആർ ഈ കാണുന്ന ആർ മായി സീരിസ് കണക്ഷനാണ് ഇതിന്റെ ഫലമായി ടുആർ ലഭിക്കുന്നു വീണ്ടും ടുആർ ടുആർ എന്നിവ ഇവിടെ പാരലൽ ആണ് അതിനുശേഷം ആർ ആർ എന്നിവ സീരിസ് ആണ് ഇത് തുടരുന്നു അവസാനം നമുക്ക് ലഭിക്കുന്നത് ഈ നെറ്റ്വർക്കാണ് ഇവിടെ ടുആർ ഇവിടെ ഒരു ടുആർ ഇതാണ് നിങ്ങളുടെ വോൾട്ടേജ് സോഴ്സ് Vref അതിനുശേഷം ആർ അതിനുശേഷം ഒരു ആംപ്ലിഫയർ ഇവിടെ ഒരു ടുആർ അതുകൊണ്ട് ആർ ടുആർ ടുആർ ടുആർ ഇതിന് ഒരു തെവിനിൻസ് സർക്യൂട്ട് thevenins circuit ഉണ്ടാക്കുകയാണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് V2 ആയിരിക്കും തെവിനിൻസ് ഇംപിഡൻസ് thevenins impedance ടുആർ പാരലൽ ടുആർ അതായത് ആർ ആയിരിക്കും അതിനാൽ ഈ നെറ്റ്വർക്ക് ഇങ്ങനെ സംഗ്രഹിക്കാൻ സാധിക്കും V2 ആർ എന്നിവ സീരിസ് ആണ് ഇതാണ് തെവിനിൻസ് നെറ്റ്വർക്ക് thevenins network വീണ്ടുമൊരു ആർ അതിനുശേഷം ഒരു ആംപ്ലിഫയർ ഇവിടെ ഒരു ടുആർ ഇതാണ് ഇപ്പോഴത്തെ നെറ്റ്വർക്ക് ഈ ആർ ഈ ആർ എന്നിവ ടുആർ നൽകുന്നു ടുആർ ടുആർ എന്നിവ ഗെയിൻ 1 നൽകുന്നു അതിനാൽ നിങ്ങൾക്ക് V2 ലഭിക്കുന്നു എൻ ബിറ്റ്സ് കൺവെർട്ടറിന്റെ ടോട്ടൽ റേഞ്ച് എടുക്കുകയാണെങ്കിൽ MSB യുടെ വെയിറ്റേജ് V2 ആയിരിക്കണം നിങ്ങൾ MSB മാത്രം സ്വിച്ച് ഓൺ ചെയ്താൽ Vref2 സിഗ്നൽ ലഭിക്കും അതേപോലെ മറ്റുള്ള ബിറ്റ്സ് ഗ്രൌണ്ട് ചെയ്ത് അടുത്ത ബിറ്റ് മാത്രം സ്വിച്ച് ഓൺ ചെയ്താൽ V4 ലഭിക്കും ഇതേപോലെ V8 ലഭിക്കും ഇതൊരു ലീനിയർ സർക്യൂട്ട് ആയതിനാൽ ചില ഡിജിറ്റൽ നമ്പർസ് മാത്രം സ്വിച്ച് ഓൺ ചെയ്തു മറ്റു ചിലവ സ്വിച്ച് ഓഫ് ചെയ്താൽ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പൽ ലഭിക്കുന്നു അവസാനം ലഭിക്കുന്ന സിഗ്നൽ Vref ബൈനറി നമ്പറുമായി വെയിറ്റ് ചെയ്തതായിരിക്കും ഡിജിറ്റൽ നമ്പറിന് ആനുപാതികമായ ഒരു അനലോഗ് വോൾട്ടേജ് നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് ഇതിനെ ഡിജിറ്റൽ റ്റു അനലോഗ് കൺവെർട്ടർ എന്ന് വിളിക്കുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ കൺവെർട്ടർ എന്നാണ് ഈ എ ഡി കൺവെർട്ടർ അറിയപ്പെടുന്നത് ഇവിടെ തത്വം ലളിതമാണ് ആദ്യം ഇത് 0 ആണെന്ന് കരുതുക ഇത് രണ്ടു സിഗ്നലിനെയും താരതമ്യം ചെയ്യുന്നു അനലോഗ് സിഗ്നൽ ആണ് വലുതെങ്കിൽ ഔട്ട്പുട്ടായി 1 ലഭിക്കുന്നു ഈ 1 കൺട്രോൾ ലോജിക്കിനെ സെറ്റ് ചെയ്യുന്നു ഏറ്റവും വലിയ ബിറ്റിനെ ഹൈ ആക്കുന്നു അതായത് V2 ഇത് ഡി എ കൺവെർട്ടറിലേക്ക് വന്നു ഇവിടെ നൽകുന്നു അടുത്തതായി അനലോഗ് സിഗ്നൽ V2 നേക്കാൾ വലുതാണെങ്കിൽ ഔട്ട്പുട്ട് 1 തന്നെയായിരിക്കും അടുത്ത ബിറ്റ് നൽകും ഇതുപോലെ ആദ്യം MSB നൽകുന്നു അതിനു ശേഷം അടുത്ത ബിറ്റ് നൽകുന്നു ഈ സിഗ്നൽ ഈ സിഗ്നലിനെ മറികടക്കുന്നത് വരെ ഇത് തുടരുന്നു അതിനുശേഷം ആ ലെവലിൽ ഇത് നിർത്തുന്നു നിർത്തുമ്പോൾ ലഭിക്കുന്ന ഡിജിറ്റൽ ബിറ്റ്സ് അനലോഗ് സിഗ്നലിനു വളരെ അടുത്തുള്ള വാല്യൂ ആയിരിക്കും ഇങ്ങനെയാണ് സക്സസീവ് അപ്രോക്സിമേഷൻ കൺവെർട്ടർ പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള മറ്റു പല കൺവെർട്ടർസും ഉണ്ട് ഇത് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഫ്ലാഷ് എ ഡി സി ആണ് വിശദമായി പഠിക്കാൻ നമുക്ക് സമയമില്ല നേരത്തെ ഓരോ ബിറ്റും പലതവണ സെറ്റ് റീസെറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത് കൂടുതൽ സമയം ആവശ്യമാണ് പക്ഷേ ഈ കൺവെർട്ടറിൽ ഒരു ക്ലോക്ക് സൈക്കിളിലാണ് കൺവർഷൻ നടക്കുന്നത് പക്ഷേ ഇതിന് വലിയ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് ആവശ്യമുണ്ട് ഇവ വളരെ പ്രിസൈസ് ആയിരിക്കണം അല്ലെങ്കിൽ എറർ വരും അതിനാൽ ഇത് ഫാസ്റ്റ് ആണെങ്കിലും ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതിനാൽ തന്നെ നാം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നില്ല പലതരത്തിലുള്ള കൺവെർട്ടർസിനെ താരതമ്യം ചെയ്യാം സക്സസീവ് അപ്രോക്സിമേഷൻ കൺവെർട്ടർ ഫ്ലാഷ് എന്നിവ നാം കണ്ടു ഇതുകൂടാതെ വോൾട്ടേജ് റ്റു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇൻറഗ്രേറ്റിങ് കൺവെർട്ടർസ് കൂടിയുണ്ട് ഇവ സാവധാനമാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ വളരെ കൃത്യമാണ് ഫ്ലാഷ് 4 മുതൽ 8 വരെ ബിറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നു ഇത് പൊതുവേ കുറഞ്ഞ നമ്പറാണ് പക്ഷേ കൺവെർഷൻ വളരെ വേഗത്തിലാണ് 500 മെഗാഹെർട്ട്സ് വരെ കൺവെർഷൻ നടത്തുന്നു സക്സസീവ് അപ്രോക്സിമേഷൻ ആണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് 8 മുതൽ 16 വരെ ബിറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നു മീഡിയം സാംപ്ലിങ് റേറ്റ് ആണ് സക്സസീവ് അപ്രോക്സിമേഷൻ മിക്കവാറും പ്രൊസസ്സിനു മതിയാകും അടുത്തത് ഇൻറഗ്രേറ്റിങ് കൺവെർട്ടർസ് ആണ് ഇവ വളരെ സാവധാനമാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ വളരെ കൃത്യമാണ് കാരണം വളരെ കൂടുതൽ സമയത്തേക്ക് ഇവ ഇൻപുട്ട് ആവറേജിങ് ചെയ്യുന്നു ഇതുകാരണം നോയ്സിനെ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അടുത്തതായി സിസ്റ്റം ലെവലിലേക്ക് വരാം പൊതുവേ രണ്ടുതരം ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് ഉണ്ട് ആദ്യത്തേത് എക്സ്റ്റേണൽ ബസ് റിമോട്ട് ആണ് കമ്പ്യൂട്ടർ ഇവിടെ വ്യത്യസ്തമായ സ്ഥലത്താണ് ഉണ്ടാവുക ഇവിടെ അനലോഗ് സിഗ്നൽസ് അവസാനിക്കുന്നു ഇതു സിഗ്നൽ കണ്ടീഷൻഡ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ സിഗ്നൽ കണ്ടീഷൻ ചെയ്യും അടുത്തത് നമ്മൾ കണ്ടുകഴിഞ്ഞ എ ഡി കൺവെർഷൻ ആണ് ഇനി ഈ ഫിസിക്കൽ സിസ്റ്റംസ് എല്ലാം തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഉള്ളത് ഇവയ്ക്കു സ്വന്തമായ പവർ സപ്ലൈ ഉണ്ട് ഫീൽഡിന് കൂടുതൽ അടുത്ത് ആയിട്ട് ആയിരിക്കും ഇവ നിലനിൽക്കുക അവയ്ക്ക് സ്വന്തമായ പ്രൊസസ്സർസ്സും ഉണ്ട് വാല്യൂ ആദ്യം എംബഡഡ് കമ്മ്യൂണിക്കേഷൻ കൺട്രോളർ പ്രോസസറിലേക്ക് വരുന്നു അതിനുശേഷം RS 232 422 485 IEEE 488 തുടങ്ങിയ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഉപയോഗിച്ചു ഇതു ഹോസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നു ഇവിടെയാണ് ഡേറ്റ ഉപയോഗിക്കുന്നത് ഈ ചെറിയ ബോക്സ് പ്രോസസിന്റെ അടുത്ത് ആയിട്ടാണ് ഉണ്ടാവുക അവിടെ നിന്ന് ഒരു വയർ പുറത്തേക്ക് വരുന്നു പൊതുവേ ഇത് കമ്പ്യൂട്ടറിലേക്കുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ പ്രയോജനം എന്തെന്നാൽ ഇവയ്ക്ക് ഏതു ഹോസ്റ്റ് കംപ്യൂട്ടറുമായും കണക്ട് ചെയ്യാൻ സാധിക്കും അസൌകര്യം എന്തെന്നാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ കാരണം പൊതുവേ അക്വിസിഷൻ റേറ്റ്സ് പരിമിതമായിരിക്കും കുറച്ച് സാവധാനത്തിലുള്ള റേറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആകും നിങ്ങൾക്ക് ലഭിക്കുക രണ്ടാമത്തേത് ഇന്റേർണൽ പി സി ബസ് ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് ആണ് ഇവിടെ ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് നിലനിൽക്കുന്നത് പി സി ബോക്സിന്റെ അകത്താണ് ഇവ പി സി യുമായി പി സി ഐ ബസ് വഴി ആശയ വിനിമയം നടത്തുന്നു ഇവ പാരലൽ ആയതിനാൽ കൂടുതൽ വേഗത ഉണ്ടാകും ഡേറ്റ അക്വിസിഷൻ റേറ്റ്സ് കൂടുതൽ വേഗത്തിലാകും പക്ഷേ പി സി ഫീൽഡിന് അടുത്ത് ആയിരിക്കണം അല്ലെങ്കിൽ വളരെ നീളമുള്ള കേബിൾ പി സി യുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കേണ്ടിവരും അതേപോലെ ഇവ പ്രത്യേക മെഷീനുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഉദാഹരണത്തിന് വിൻഡോസ് പി സി സ് ഇത് ഒരു പി സി ഡേറ്റ അക്വിസിഷൻ ബോർഡിന്റെ ചിത്രമാണ് ബോർഡിൽ തന്നെയുള്ള സി പി യു പി സി ബസ് വഴി പി സി മെമ്മറിയിലേക്ക് ഡേറ്റ കൈമാറുന്നു പി സി സി പി യു ഡേറ്റ മെമ്മറിയിൽ നിന്നും എടുത്തു ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും ഇവ പൊതുവേ വിൻഡോസ് പി സി ക്കു വേണ്ടി ഡിസൈൻ ചെയ്തതാണ് ഇവ സുലഭവും ചെലവ് കുറഞ്ഞതുമാണ് പൊതുവേ രണ്ടു തരം ഡേറ്റ അക്വിസിഷൻ സിസ്റ്റംസ് ഉണ്ട് ഒരു ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൻറെ സ്പെസിഫിക്കേഷൻ നോക്കാം പവർ കൺസംഷൻ ഡിജിറ്റലിന് 5 വോൾട്ട്സ് ആണ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ആയതുകൊണ്ട് കറണ്ടിന്റെ ആവശ്യകത അധികമാണ് അനലോഗിന് 12 വോൾട്ട്സ് സപ്ലൈ ആണ് ചാനലിന്റെ എണ്ണം വളരെ പ്രധാനമാണ് 8 അനലോഗ് ചാനൽസ് ഉണ്ടാകാം 8 സിംഗിൾ എൻഡഡ് 8 ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ 16 വരെ സിംഗിൾ എൻഡഡ് ചാനൽസ് ഉണ്ടാകാം പൊതുവേ ഡിജിറ്റൽ ചാനൽസിന്റെ എണ്ണം 64 വരെ ആകാം കാരണം അവ ഓരോ സിഗ്നൽ മാത്രമേ എടുക്കുന്നുള്ളൂ എത്ര ബിറ്റ്സ് കൺവെർട്ടർ ആണ് ഉപയോഗിക്കുന്നത് ഇത് 12 ആണ് ഇതാണ് അക്യുറസി ഇതാണ് ഫുൾ സ്കെയിൽ ഡൈനാമിക് റേഞ്ച് 0 മുതൽ 10 വോൾട്ട് ഡിസി വരെ ആണ് എ ഡി കൺവെർട്ടർ കോഡ്സ് ഫോർമാറ്റിൽ ലഭ്യമാണ് ഉദാഹരണത്തിന് റ്റൂസ് കോംപ്ലിമെന്റ് ട്രൂ ബൈനറി ഓഫ്സെറ്റ് ബൈനറി തുടങ്ങിയവ ഗെയിൻ സീറോ ഡ്രിഫ്റ്റ് എന്നിവ സിഗ്നൽ കണ്ടീഷനിംഗ് ബ്ലോക്കിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ഇവയ്ക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ടാകും ആംപ്ലിഫയർ ഗെയിനിലെ മാറ്റം സീറോ ഡ്രിഫ്റ്റ് എന്നിവയാണ് നൽകിയിരിക്കുന്നത് അക്വിസിഷൻ ടൈം 4 മൈക്രോ സെക്കൻഡ്സ് ആണ് ഒരു ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സ്പെസിഫിക്കേഷൻസ് ഇവയൊക്കെയാണ് അവസാനമായി ഡേറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയർ ആണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത് ചില ഡ്രൈവേഴ്സ് ഓടുകൂടിയാണ് വരുന്നത് ഡേറ്റ അക്വിസിഷൻ സിസ്റ്റം ഉപയോഗിക്കാനായി നിങ്ങൾക്ക് നിങ്ങളുടേതായ C അല്ലെങ്കിൽ ബേസിക് പ്രോഗ്രാം എഴുതാം ഇതിന് വളരെയധികം പ്രോഗ്രാമിങ് ആവശ്യമുണ്ട് പക്ഷേ ഇത് വളരെയധികം ഫ്ലെക്സിബിലിറ്റി നമുക്ക് തരുന്നു ഇതിന് വളരെയധികം പ്രോഗ്രാമിങ് ആവശ്യമുണ്ട് ഒരു വ്യാവസായിക സന്ദർഭത്തിൽ ഇത് അത്ര പരിഗണിക്കേണ്ടതില്ല അതിനാൽ ഡേറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ഉപയോഗിക്കാം അതിനാൽ പ്രോഗ്രാമബിൾ സോഫ്റ്റ്വെയറിൽ പ്രയോജനം ഫ്ലെക്സിബിലിറ്റി ആണ് ഇതിൻറെ അസൌകര്യം സങ്കീർണതയും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയാത്തതുമാണ് ഡേറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇതിന് പ്രോഗ്രാമിംഗ് ആവശ്യമില്ല ഗ്രാഫിക്കൽ പ്രോഗ്രാമിങ് മാത്രമേ ആവശ്യമുള്ളൂ സാമാന്യ ജ്ഞാനവും ഡൊമൈനുമായി ബന്ധപ്പെട്ട അറിവും മാത്രമേ ആവശ്യമുള്ളൂ സിസ്റ്റം കോൺഫിഗർ ചെയ്തു ഡേറ്റ ലഭ്യമാക്കാനും ഡിസ്പ്ലേ ചെയ്യാനും വളരെ ഇതിൽ എളുപ്പമാണ് ഇത് ഡെവലപ്പെർസിനെ അവരുടെ അപ്ലിക്കേഷനു യോജിച്ച കസ്റ്റം ഇൻസ്റ്റ്രുമെന്റ്സ് ഡിസൈൻ ചെയ്യാൻ സഹായിക്കുന്നു ഇതാണ് വിവിധ ഉദാഹരണങ്ങൾ വളരെ പരിചിതമായത് ലാബ് വ്യൂ ആണ് മറ്റു ചിലവ കൂടി ഇതിലുണ്ട് ഈ അധ്യായത്തിൽ നാം കണ്ട കാര്യങ്ങൾ ഇവയാണ് ഡേറ്റ അക്വിസിഷൻ സിസ്റ്റത്തിന്റെ രൂപകല്പന സാംപ്ലിങ് ആശയങ്ങൾ അനലോഗ് റ്റു ഡിജിറ്റൽ കൺവെർഷൻ വിശദാംശങ്ങൾ ഡേറ്റ അക്വിസിഷൻ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് data acquisition hardware software features ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ഇവയാണ് കൺവേർഷന്റെ കൃത്യതയെ സിഗ്നൽ കണ്ടീഷനിംഗ് ബാധിക്കുന്ന 3 വഴികൾ ഏതൊക്കെയാണ് ഡൈനാമിക് റേഞ്ച്നെക്കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് മറ്റു ചിലത് ആലോചിക്കാം സൈമുൽട്ടാനിയസ് സാമ്പിൾ ആൻഡ് ഹോൾഡ് എവിടെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് എവിടെയാണ് ആവശ്യമില്ലാത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഘടകങ്ങൾ എ ഡി കൺവെർട്ടർ ചാനലിന്റെ എണ്ണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എ ഡി സി യുടെ മുന്നിൽ ആന്റി അലിയാസിങ് ഫിൽട്ടർ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും ഒരു എ ഡി സി തിരഞ്ഞെടുക്കുക പകുതിയിൽ വെച്ച് സിഗ്നൽ 0 യിലേക്ക് പോകുന്നു എന്ന് കരുതുക ചിലപ്പോൾ തെറ്റായ ഫലം ഉണ്ടാകും ചിലപ്പോൾ ശരിയായ ഫലം ഉണ്ടാകും ഡേറ്റ അക്വിസിഷൻ സോഫ്റ്റ്വെയറിന്റെ 3 ധർമ്മങ്ങൾ എന്തൊക്കെ ആണെന്ന് പറയുക അതിലൊന്ന് ഡിസ്പ്ലേയാണ് മറ്റുള്ളവ രണ്ടും ഇൻറർനെറ്റിൽ പ്രസിദ്ധീകരിച്ച സോഫ്റ്റ്വെയർ നോക്കി നിങ്ങൾക്ക് മനസിലാക്കാം ഇന്നത്തേക്ക് ഇത്രയുമാണ്